കാണുക കോഴ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് നിർദ്ദേശപരമായ ലക്ഷ്യങ്ങൾ അവലോകനം ചെയ്യാം ഒരു വ്യാവസായിക പശ്ചാത്തലത്തിൽ PID കൺട്രോള ഇൻറെ അനുബന്ധ പാരാമീറ്ററുകൾ എങ്ങനെ നിർവചിക്കാമെന്ന് നമ്മൾ പഠിക്കും രണ്ടാമതായി ഇന്റഗ്രേറ്റർ വിൻഡ് അപ്പ് എന്നറിയപ്പെടുന്ന പിഐഡി നിയന്ത്രണവുമായി ഇടയ്ക്കിടെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചും അത് കുറയ്ക്കുന്നതിനുള്ള വഴികളെക്കുറിച്ചും നമ്മൾ വിശദമായി വിവരിക്കും ഡെറിവേറ്റീവ് നിയന്ത്രണ ഭാഗം നടപ്പിലാക്കുന്നതിനുള്ള വിവിധ വഴികളും നമ്മൾ വിവരിക്കും ബമ്പ് ലെസ് ഓട്ടോ മാനുവൽ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്ന മറ്റൊരു സാങ്കേതികത നമ്മൾ പഠിക്കും അതായത് നിയന്ത്രണം ഓട്ടോയിൽ നിന്ന് മാനുവലിലേക്കോ മാനുവലിൽ നിന്ന് ഓട്ടോയിലേക്ക് മാറ്റുമ്പോൾ പ്രക്രിയയ്ക്ക് ഒരു ഷോക്ക് കൂടാതെ സംഭവിക്കണം അവസാനമായി നമ്മൾ PID നിയന്ത്രണത്തിന്റെ ഡിജിറ്റൽ നടപ്പാക്കലുകളെക്കുറിച്ച് വിശദീകരിക്കും അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് PID നിയന്ത്രണത്തിന്റെ വിവിധ പ്രായോഗിക വശങ്ങൾ പരിശോധിക്കാൻ പോകുന്നു അതിനാൽ നമുക്ക് PID സമവാക്യത്തിൽ നിന്ന് ആരംഭിക്കാം കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ട പിഐഡി സമവാക്യമാണിത് Kp പ്രൊപോഷണൽ നേട്ടമാണ് പിഐഡി കൺട്രോളറുകളുടെ പശ്ചാത്തലത്തിൽ പ്രൊപോഷണൽ ബാൻഡ് എന്ന സമാനമായ ഒരു പാരാമീറ്ററും ഉപയോഗിക്കുന്നു ഇത് ആനുപാതിക ഗെയിൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ ഉടൻ കാണും അടുത്തത് Ti എന്ന പാരാമീറ്ററാണ് ഇത് റീസെറ്റ് സജ്ജീകരണ സമയം എന്ന് വിളിക്കുകയും മിനിറ്റ് പർ റിപ്പീറ്റ് എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക യൂണിറ്റിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അടുത്തത് ഡെറിവേറ്റീവ് സമയമാണ് ഡെറിവേറ്റീവിന് യൂണിറ്റായി മിനിറ്റുകളുണ്ട് ഇത് അസാധാരണമായി തോന്നാമെങ്കിലും സാധാരണ രാസപ്രക്രിയകൾക്ക് ടൈം കോൺസ്റ്റൻനറ് മിനിറ്റുകൾ ആണെന്ന് ഓർമ്മിക്കുക അതിനാൽ ഈ സമയങ്ങൾ പലപ്പോഴും മിനിറ്റുകളിൽ പ്രകടിപ്പിക്കപ്പെടുന്നു PID കൺട്രോൾ സമവാക്യത്തിന്റെ പാഠപുസ്തക പതിപ്പ് എന്ന് വിളിക്കപ്പെടുന്ന വളരെ അറിയപ്പെടുന്ന നിയന്ത്രണ ശാസ്ത്രജ്ഞൻ കാൾ ജോഹാൻ ആസ്ട്രോം പ്രസ്താവിക്കുന്നു ഈ സമവാക്യം നടപ്പിലാക്കുന്നതിനുമുമ്പ് നമ്മൾ ചെയ്യേണ്ട വിവിധ പരിഷ്കാരങ്ങളുണ്ടെന്ന് നമ്മൾ ഈ പാഠത്തിൽ കാണും അതിനാൽ ആദ്യം വിവിധ പദങ്ങൾ നിർവചിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പോകാം അതിനാൽ നമ്മൾ ആദ്യം പ്രൊപോഷണൽ ഗെയിൻ നിർവചിക്കുന്നു പ്രൊപോഷണൽ ഗെയിൻ അറിയപ്പെടുന്ന പദമാണ് KP എന്നാൽΔ u Δ e അല്ലെങ്കിൽ u e ആണ് പ്രൊപോഷണൽ ബാൻഡ് ആണ് പുതിയ പദം

അതിനാൽ പ്രൊപോഷണൽ ബാൻഡ് നിർവചിച്ചിരിക്കുന്നത് കൺട്രോളർ ഔട്ട്പുട്ടിൽ നൂറു ശതമാനം വ്യതിയാനത്തിന് കാരണമാകുന്ന പിശകുകളുടെ ബാൻഡാണ് ഇത് സാധാരണയായി അളവിന്റെ ശ്രേണിയുടെ ശതമാനമായി പ്രകടിപ്പിക്കുന്നു അതിനാൽ അതാണ് നിർവചനം അതിനാൽ ഇത് ഒരു വിപരീത രീതിയിലാണ് ഇവിടെ ഗെയിൻ ue ആണ് ഇവിടെ നമ്മൾ PB യെ പിശകിന്റെ ബാൻഡായി നിർവചിക്കുന്നു ഇത് കൺട്രോളർ ഔട്ട്പുട്ടിൽ നൂറു ശതമാനം വ്യതിയാനത്തിന് കാരണമാകുന്നു അല്ലെങ്കിൽ പ്ലാന്റിലേക്കുള്ള കൃത്രിമ ഇൻപുട്ട് ആണ് ആ അർത്ഥത്തിൽ ഇത് Kp യുടെ വിപരീതമാണ് അതിനാൽ ഈ ഡയഗ്രം കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കും കൺട്രോളർ ഇൻപുട്ട് നോക്കുക നിലവിൽ സെറ്റ് പോയിന്റ് ഒരു പ്രത്യേക മൂല്യത്തിൽ സജ്ജമാക്കിയിരിക്കുന്നു ഔട്ട്പുട്ടിന്റെ അളവ് ഈ മേഖലയിലെവിടെയും ആകാം അതിനാൽ ഇത് പലതരം പിശകുകൾക്ക് കാരണമാകും നിങ്ങൾ ഒരു പ്രൊപോഷണൽ ബാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ പിശക് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടും വർദ്ധിക്കും ഈ സാഹചര്യത്തിൽ പ്രൊപോഷണൽ കൺട്രോളറിന് യഥാർത്ഥത്തിൽ 50 ബയസ് ഉണ്ട് അതായത് പിശക് 0 ആകുമ്പോൾ കൺട്രോളറിന്റെ 50 ഔട്ട്പുട്ട് ഉണ്ട് ഇത് സാധാരണയായി 50 ആയി സജ്ജീകരിച്ചിരിക്കുന്നു കൺട്രോളർ ഔട്ട്പുട്ട് സമവാക്യം യഥാർത്ഥത്തിൽ നൽകിയിരിക്കുന്നത് ഔട്ട്പുട്ട് u Kp C ഒരു കോൺസ്റ്റൻനറ് പദം ഉണ്ട് ഈ കോൺസ്റ്റൻനറ് പദം യഥാർത്ഥത്തിൽ 50 ആണ് അതിനാൽ e പൂജ്യമാകുമ്പോൾ നിങ്ങൾക്ക് 50 ഔട്ട്പുട്ട് ലഭിക്കും അല്ലാത്തപക്ഷം അവ അവസാന പാഠത്തിൽ നമ്മൾ കണ്ടതുപോലെ എല്ലായ്പ്പോഴും സ്ഥിരമായ ഒരു പിശകായിരിക്കും അതിനാൽ സംഭവിക്കുന്നത് ഈ ഭാഗത്തേക്കോ ആ ഭാഗത്തേക്കോ പിശക് മാറുമ്പോൾ ഔട്ട്പുട്ട് കുറയുകയോ വർദ്ധിക്കുകയോ ചെയ്യുന്നു ഇവിടെ നിന്ന് പിശക് മാറുകയാണെങ്കിൽ പ്ലാന്റിലേക്കുള്ള ഇൻപുട്ട് 0 മുതൽ 100 വരെ വർദ്ധിക്കുന്നു അതിനാൽ ഇത് ഔട്ട്പുട്ട് സൃഷ്ടിക്കുന്ന പിശകിന്റെ ബാൻഡാണ് അതായത് കൺട്രോളർ ഔട്ട്പുട്ടിൽ 0 മുതൽ 100 വരെ വ്യതിയാനം കിട്ടും ഇതാണ് പ്രൊപോഷണൽ ബാൻഡ്

Kp Δu Δe ആയിരിക്കുമ്പോൾ പ്രൊപോഷണൽ ബാൻഡിനെ നൂറു ശതമാനം Kp നിർവചിക്കുന്നു ഇത് ശതമാനത്തിൽ പിശക് നൽകുന്നുവെന്ന് 100 ഇൻപുട്ട് മാറ്റത്തിന് കാരണമാകുമെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും വ്യക്തമായും ഒരു ഇടുങ്ങിയ Kp അല്ലെങ്കിൽ Kp കുറഞ്ഞ മൂല്യം ആണെങ്കിൽ K ഉയർന്ന മൂല്യം സൂചിപ്പിക്കുന്നു ഒരു ഇടുങ്ങിയ പി അഥവാ പ്രൊപോഷണൽ ബാൻഡ് അല്ലെങ്കിൽ ഒരു കുറഞ്ഞ മൂല്യം സൂചിപ്പിക്കുന്നത് ഒരു ഉയർന്ന പ്രൊപോഷണൽ ഗെയിൻ ആണ് അതിനാൽ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ഒരു താപനില നിയന്ത്രണ ലൂപ്പ് ഉണ്ടെന്ന് കരുതുക അവിടെ പൂർണ്ണ അളവ് 50 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് 20C യുടെ ഒരു പിശക് ഉണ്ടെന്ന് കരുതുക 500C യുടെ 4 ആണ് ഇത് അതായത് ഇൻപുട്ട് മാറ്റത്തിന് 100 കാരണമാകുന്നു അതിനാൽ ഒരു താപം ഉണ്ടാകാം അല്ലെങ്കിൽ 0 വാട്ടിൽ നിന്ന് ഔട്ട്പുട്ട് 5000 വാട്ടിലേക്ക് മാറും അല്ലെങ്കിൽ 1000 വാട്ട് അല്ലെങ്കിൽ എന്തും അതിനാൽ പിശക് 20C മാറുകയാണെങ്കിൽ ഹീറ്റർ ഔട്ട്പുട്ട് 0 മുതൽ 100 വരെ മാറും അത്തരമൊരു സാഹചര്യത്തിൽ 4 പിശക് മാറ്റം ഇൻപുട്ടിൽ 100 മാറ്റത്തിന് കാരണമാകുന്നു അതിനാൽ ഈ കേസിലെ പ്രൊപോഷണൽ ബാൻഡ് 4 ആണ് ഇതാണ് പ്രൊപോഷണൽ ബാൻഡിന്റെ അർത്ഥം ഇനി നമുക്ക് ഇന്റഗ്രൽ ഗെയിൻ ഇന്റഗ്രൽ ടൈമും പ്രൊപോഷണൽ ബാൻഡും ഉപയോഗിച്ച് പ്രകടിപ്പിക്കാം എന്ന് നോക്കാം പിന്നെ എന്തിനാണ് ഇന്റഗ്രൽ ഗെയിൻ KI എന്ന് പ്രകടിപ്പിക്കുന്നതിനുപകരം ഞാൻ അതിനെ KP x TI എന്ന് പ്രകടിപ്പിച്ചു എനിക്ക് KD എന്ന് വിളിക്കാവുന്ന ഡെറിവേറ്റീവ് ഗെയിൻ KP x TD എന്ന് എന്തിന് ഞാൻ പ്രകടിപ്പിച്ചു കാരണം നിങ്ങൾക്ക് ചരിത്രത്തിൽ അറിയാവുന്ന ഹൈഡ്രോളിക് ന്യൂമാറ്റിക് പിഐഡി കൺട്രോളറിന്റെ നിർമ്മാണം എങ്ങനെയെന്നാൽ ഉപകരണത്തിന്റെ ഒരു ഭാഗം Kp മറ്റൊരു ഭാഗം Ti വേറെ ഒരു ഭാഗം TD എന്നിവ നിയന്ത്രിക്കാൻ ഉപയോഗിക്കും അതിനാൽ KP Ti Td പദങ്ങൾ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കൺട്രോളറിന്റെ ചില പ്രത്യേക ഭാഗങ്ങളുണ്ട് ശരാശരി ആയി ഓവറോൾ ഇന്റഗ്രൽ ഗെയിൻ ആയി KP TI ഓവറോൾ ഡെറിവേറ്റീവ് ഗെയിൻ ആയി KP x TD നിർവഹിക്കാം അതിനാൽ ആ തത്വത്തിൽ നിന്നാണ് ഇന്റഗ്രൽ സമയവും ഡെറിവേറ്റീവ് സമയ നിബന്ധനകളും തുടരുന്നത് എന്നാൽ നിങ്ങൾക്ക് ഒരു മൈക്രോപ്രൊസസ്സർ അധിഷ്ഠിത കൺട്രോളർ ഉണ്ടെങ്കിൽ ഈ നിബന്ധനകളെല്ലാം പരിഗണിക്കേണ്ടതില്ല നിങ്ങൾക്ക് KI KD തുല്യമായി പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ അർത്ഥങ്ങൾ നമുക്ക് നോക്കാം കാരണം KI KD എന്നിവ കേവലം ഗെയിൻ പദങ്ങളാണെന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കുന്നു ഇന്റഗ്രൽ ടൈം എന്താണെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഇന്റഗ്രൽ ടൈം പ്രൊപോഷണൽ കൺട്രോൾ ശ്രമം അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പിശക് സിഗ്നലിനായുള്ള ആവർത്തിക്കാൻ എടുക്കുന്ന സമയമാണ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഈ സാഹചര്യം നോക്കാം ഇപ്പോൾ ഇത് ഒരു PI കൺട്രോളറായി എടുക്കുക എന്ന് കരുതുക നിങ്ങൾ കൺട്രോളറിന് ഇതുപോലുള്ള ഒരു സ്റ്റെപ്പ് ഇൻപുട്ട് നൽകിയാൽ നിങ്ങളുടെ ഔട്ട്പുട്ട് എങ്ങനെ വ്യത്യാസപ്പെടും u ഔട്ട്പുട്ട് ഇതുപോലെ വ്യത്യാസപ്പെടും ഉടൻ തന്നെ Kp ഭാഗം ഉയരും അതിനാൽ ഇത് Kp ഇ കൊണ്ട് ഗുണിക്കും തുടർന്ന് ഇന്റഗ്രൽ പദം പിശക് സംയോജിപ്പിക്കാൻ തുടങ്ങും ഇത് മുകളിലേക്ക് പോകുകയും കുറച്ച് സമയത്തിന് ശേഷം ഇൻപുട്ടിന്റെ ഈ ഇന്റഗ്രൽ ഭാഗം പ്രൊപോഷണൽ ഭാഗത്തിന് തുല്യമാവുകയും ചെയ്യും കൃത്യമായി Ti സമയത്തിന് ശേഷം ഇൻപുട്ട് 2Kp ആയി മാറും പ്രൊപോഷണൽ കൺട്രോൾ ഇൻപുട്ട് Kp ആണെങ്കിൽ ഞാൻ പിശക് ഐക്യമായി സ്വീകരിച്ചതിനാൽ Ti സമയത്തിന് ശേഷം മൊത്തം ഇൻപുട്ട് 2 കെപി ആയി മാറും അല്ലെങ്കിൽ ഇന്റഗ്രൽ ഭാഗം പ്രൊപോഷണൽ ഭാഗം ആവർത്തിക്കും ആ അർത്ഥത്തിൽ ഈ നിർവചനം ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നു ഒരു സ്റ്റെപ്പ് എറർ സിഗ്നലിനായി പ്രൊപോഷണൽ കൺട്രോൾ ശ്രമം ആവർത്തിക്കാൻ ഈ സമയം എടുക്കുന്നു ഇത് Kp Ti ആയി നൽകിയിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്റഗ്രൽ ഗെയിൻ Kp Ti എന്ന് പ്രകടിപ്പിക്കുന്നു ഈ നിർവചനത്തിൽ നിന്ന് ഇത് മിനിറ്റ് പർ റിപ്പീറ്റ് ആയി എന്തിനാണ് പ്രകടിപ്പിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമാണ് ഇത് തുടരുകയാണെങ്കിൽ ഓരോ Ti മിനിറ്റിലും ഇന്റഗ്രൽ പദം മറ്റൊരു Kp തവണ ഇൻപുട്ട് നൽകും അതിനാൽ ഇവ പ്രൊപോഷണൽ കൺട്രോൾ ആണ് അത് ഓരോ Ti മിനിറ്റിലും തുടർച്ചയായി ആവർത്തിക്കും ആ അർത്ഥത്തിൽ ഇതിൻറെ യൂണിറ്റ് മിനിറ്റ് പർ റിപ്പീറ്റ് ആണ് അതിനാൽ അതാണ് ഇന്റഗ്രൽ പദം വിശദീകരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് പദത്തിലേക്ക് പോകുന്നു വീണ്ടും നമുക്ക് ഒരു ഡെറിവേറ്റീവ് ഗെയിൻ ഡെറിവേറ്റീവ് സമയം ഇപ്പോൾ പ്രൊപോഷണൽ പദത്തിന് ഒരു റാമ്പ് പിശക് സിഗ്നലിനുള്ള ഡെറിവേറ്റീവ് പദത്തിന് തുല്യം ആവാനുള്ള സമയമാണ് നമുക്ക് ഇവിടെ ഡയഗ്രം നോക്കാം ഇപ്പോൾ നമുക്ക് ഒരു പിഡി കൺട്രോളർ ഉണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു റാമ്പ് സിഗ്നൽ നൽകുകയാണെങ്കിൽ അതിൻറെ ചരിവ് ഇ ഡോട്ട് എന്ന് നമുക്ക് പറയാം സ്ഥിരമായ ഇ ഡോട്ട് ഉള്ളതിനാൽ ഡെറിവേറ്റീവ് പദം ഉയരും ഉടനടി ഒരു KD ė ടേമും ഉണ്ടാകും KP ടേമും ഇപ്പോൾ മുകളിലേക്ക് പോകാൻ തുടങ്ങും കാരണം ഇ മുകളിലേക്ക് പോകുന്നു അതിനാൽ TD ശേഷംസമയത്തിന്ഇത് KP ė TD അങ്ങനെ KD ė KP ė TD ഇതാണ് ഡെറിവേറ്റീവ് ടേം ഔട്ട്പുട്ട് തുടർന്ന് KD KP TD ഡെറിവേറ്റീവ് ടൈം എന്നാൽ പ്രൊപോഷണൽ പ്രവർത്തനം ഡെറിവേറ്റീവ് പ്രവർത്തനം ആവർത്തിക്കുന്ന സമയമാണ് ഡെറിവേറ്റീവ് സമയം എന്ന വാക്കിന്റെ അർത്ഥമെന്താണ് ഇപ്പോൾ നമ്മൾ PID കൺട്രോളർ നടപ്പിലാക്കാൻ പോകുന്നു അടിസ്ഥാനപരമായി നമ്മൾ ഈ പദം ആനുപാതികമായി നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഒരു ഇന്റഗ്രൽ പ്ലസ് ഡെറിവേറ്റീവ് ആയാൽ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം ആദ്യം നമ്മൾ ഇന്റഗ്രൽ പദം വിശദമായി നോക്കുകയും ആക്ച്യുവേറ്റർ സാച്ചുറേഷൻ ഉള്ളപ്പോൾ എന്തു സംഭവിക്കുക ചെയ്യുന്നു എന്നും നോക്കാം ഇപ്പോൾ ആക്ച്യുവേറ്റർ സാച്ചുറേഷൻ യഥാർത്ഥത്തിൽ വളരെ സാധാരണമാണ് ചില സന്ദർഭങ്ങളിൽ മാത്രം സെറ്റ് പോയിന്റ് വ്യത്യാസപ്പെട്ടിരിക്കും സെറ്റ് പോയിന്റ് അതിന്റെ പരമാവധി മൂല്യത്തിന്റെ 60 ൽ നിൽക്കുന്നുവെന്നും ഒരുപക്ഷേ അത് പരമാവധി എത്തുന്ന സമയത്തിന്റെ 5 ആണെന്നും കരുതുക ഇപ്പോൾ 100 പ്രൊപോഷണൽ നിയന്ത്രണ ഇൻപുട്ടിനായി പോലും പൂർണ്ണ ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന ഒരു ആക്ച്യുവേറ്റർ നിർമ്മിക്കേണ്ടതുണ്ടെങ്കിൽ ആക്ച്യുവേറ്റർ വളരെ വലുതായിരിക്കണം കൂടാതെ ആക്യുവേറ്റർ പവർ റേറ്റിംഗ് വളരെ വലുതായിരിക്കണം അതിനാൽ 70 75 വരെ നിയന്ത്രണ ഇൻപുട്ടിന് പ്രൊപോഷണൽ ഇൻപുട്ട് നൽകാൻ കഴിയുന്ന ഒരു ആക്ച്യുവേറ്റർ നമ്മൾ തിരഞ്ഞെടുക്കും തുടർന്ന് അത് സാച്ചുറേറ്റ് ആവും നിങ്ങൾക്ക് 75 അല്ലെങ്കിൽ 80 ൽ കൂടുതൽ ഉണ്ടാകുന്ന വളരെ അപൂർവമായ കേസുകൾ ലഭിക്കാൻ പോകുന്നു ആ സമയം ചില പിശകുകൾ ഉണ്ടാകും അത് സഹിക്കാൻ നമ്മൾ തയ്യാറാണ് അതിനാൽ അത്തരം ആക്ച്യുവേറ്റർ സാച്ചുറേഷൻ കേസുകളിൽ PID കൺട്രോളറിന് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് ഈ കേസ് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കാം ആക്ച്യുവേറ്ററിന് ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന പരമാവധി ഔട്ട്പുട്ട് ഇതാണ് എന്ന് കരുതുക ഇത് സാച്ചുറേഷൻ എത്തുന്നു ഇതിന് കൂടുതൽ ഔട്ട്പുട്ട് നിർമ്മിക്കാൻ കഴിയില്ല പക്ഷേ അതിനേക്കാൾ ഉയർന്ന ഒരു സെറ്റ് പോയിന്റ് നൽകിയിട്ടുണ്ട് ഈ സെറ്റ് പോയിന്റിന് അനുയോജ്യമായ ഇൻപുട്ട് നൽകാൻ ആക്ച്യുവേറ്ററിന് സ്വാഭാവികമായും കഴിയില്ല അതിനാൽ സംഭവിക്കുന്നത് ഔട്ട്പുട്ട് ഉയരും തുടർന്ന് ഇവിടെ സാച്ചുറേഷൻ ആകും എന്നതാണ് ഈ പോയിന്റിനപ്പുറം ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ കഴിയില്ല മാത്രമല്ല ഈ പിശക് നിലനിൽക്കുകയും ചെയ്യും ഇതാണ് സ്റ്റെഡി സ്റ്റേറ്റ് പിശക് ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം നമ്മൾ ഏത് നിയന്ത്രണം പ്രയോഗിച്ചാലും ആക്ച്യുവേറ്ററിന് ഇൻപുട്ട് നൽകാൻ കഴിയില്ല അതിനാൽ പ്ലാന്റ് ഇൻപുട്ട് ഇതിനപ്പുറം വർദ്ധിക്കുകയില്ല ഇപ്പോൾ സെറ്റ് പോയിന്റ് കുറഞ്ഞുവെന്ന് കരുതുക ഇവിടെ ആ സെറ്റ് പോയിന്റിൽ എത്താൻ കഴിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിനാൽ ഇത് കുറയുന്നു ഉടൻ തന്നെ ഈ ഔട്ട്പുട്ട് ലെവൽ ആക്ച്യുവേറ്റിന് എത്തിച്ചേരാനാകും എന്താണ് അഭികാമ്യം എന്നാൽ ആക്ച്യുവേറ്റർ അത് ഉടനടി ചെയ്യും കാരണം നിയന്ത്രണ പ്രവർത്തനത്തിലൂടെ ഔട്ട്പുട്ട് ഇറങ്ങുകയും ഇന്റഗ്രൽ നിയന്ത്രണത്തിൽ സാധാരണപോലെ പൂജ്യം സ്റ്റെഡി സ്റ്റേറ്റ് പിശക് പോയിന്റിൽ എത്തിച്ചേരുകയും ചെയ്യും പക്ഷേ കൃത്യമായി എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല ഇപ്പോൾ ഈ പിശക് ഉടനടി കുറച്ചിട്ടില്ല കുറച്ച് കാലമായി ഇത് തുടരുകയാണ് ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പ്രൊപോഷണൽ പദം സ്ഥിരമായി തുടരുന്നു പക്ഷേ നിയന്ത്രണത്തിന്റെ ഇന്റഗ്രൽ പദം ഇൻപുട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ പിഐഡി കൺട്രോളറിലെ ഇന്റഗ്രൽ പിശക് സമന്വയിപ്പിക്കുന്നു എന്നിരുന്നാലും ഇതിന് ഒരു നിയന്ത്രണ ഇൻപുട്ട് സൃഷ്ടിക്കാൻ കഴിയില്ല കാരണം PID കൺട്രോളർ ഔട്ട്പുട്ട് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ആക്ച്യുവേറ്റർ ഇൻപുട്ടിലേക്കും വരുന്നു പക്ഷേ ആക്ച്യുവേറ്ററിന് ആ ഔട്ട്പുട്ട് നൽകാൻ കഴിയില്ല കാരണം ഇത് ഇതിനകം സാച്ചുറേറ്റഡ് ആണ് കുറച്ച് സമയത്തിന് ശേഷം നിയന്ത്രണ ഇൻപുട്ട് ഇപ്പോൾ കുറഞ്ഞുവെന്ന് കരുതുക നിരീക്ഷിക്കപ്പെടുന്നതെന്തെന്നാൽ നിയന്ത്രണ ഇൻപുട്ട് ഉടനടി താഴേക്ക് വീഴുകയും ആവശ്യമുള്ള സ്ഥിരമായ അവസ്ഥയിലെത്തുകയും ചെയ്യുന്നത് അഭികാമ്യമാണെങ്കിലും അത് ചെയ്യുന്നില്ല മറിച്ച് അത് അതേ തലത്തിൽ തുടരുന്നു സെറ്റ് പോയിന്റ് ഇപ്പോൾ കുറച്ചതായി കരുതി നമ്മൾ അവഗണിക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം ആക്ച്യുവേറ്റർ നിയന്ത്രണം സെറ്റ് പോയിന്റിനോട് പ്രതികരിക്കാൻ ആരംഭിക്കുന്നു ഇപ്പോൾ ഈ പ്രതിഭാസത്തെ ഇന്റഗ്രേറ്റർ വിൻഡപ്പ് എന്ന് വിളിക്കുന്നു അടിസ്ഥാനപരമായി സംഭവിച്ചത് ഇന്റഗ്രേറ്റർ ഫ്ലോട്ട്ഡ് അല്ലെങ്കിൽ ബ്ലോട്ട്ഡ് ആവും അതിനാൽ പ്ലാന്റിന് ഈ ഔട്ട്പുട്ടിൽ എത്താൻ കഴിയില്ലെന്ന് മനസ്സിലായിട്ടില്ല പിശക് നിലനിൽക്കും അതിനാൽ ഇത് അനാവശ്യമായി കൂടുതൽ നിയന്ത്രണ ഇൻപുട്ട് നൽകാൻ ശ്രമിക്കുകയും കൂടുകയും ചെയ്യും ഇത് ഇന്റഗ്രേറ്റർ വിൻഡപ്പ് ആണ് മാത്രമല്ല ഇത് സംഭവിക്കുന്നത് ഈ വസ്തുത മൂലമാണ് പിശക് നിലനിൽക്കുന്ന സമയത്ത് ഈ പോയിൻറ്ൽ നിന്ന് പറയുക ആണെങ്കിൽ പ്രൊപോഷണൽ ഇൻപുട്ട് സ്ഥിരമായി നിലനിൽക്കുന്നു പക്ഷേ ഇന്റഗ്രൽ ഇൻപുട്ട് വളരുകയാണ് ഈ സമയത്ത് ഇത് ഈ മൂല്യത്തിലെത്തിയെന്ന് കരുതുക അതിനാൽ ഈ ഘട്ടത്തിലാണ് സെറ്റ് പോയിന്റ് കുറയുന്നത് ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതാണ് സാച്ചുറേറ്റഡ് ഔട്ട്പുട്ട് അതിനാൽ ഇന്റഗ്രൽ സാച്ചുറേറ്റഡ് നിലയ്ക്ക് അപ്പുറമാണ് ഇപ്പോൾ സെറ്റ് പോയിന്റ് കുറഞ്ഞു ഇപ്പോൾ പിശക് നെഗറ്റീവ് ആയിത്തീർന്നതിനാൽ ഇന്റഗ്രൽ മൂല്യം ഇപ്പോൾ കുറയുന്നു ഈ ഘട്ടത്തിൽ ഇത് പോസിറ്റീവ് ആണ് കൂടാതെ നിയന്ത്രണ ഇൻപുട്ട് സാച്ചുറേറ്റഡ് നിലയേക്കാൾ കൂടുതലാണ് അതിനാൽ ഔട്ട്പുട്ട് നിലനിൽക്കുന്നു അതിനാൽ വളരെയധികം സമയത്തിന് ശേഷം മാത്രമേ ഇത് സാച്ചുറേറ്റഡ് മൂല്യത്തിലേക്ക് വരൂ സാച്ചുറേറ്റഡ് ഇൻപുട്ട് ലെവലിനു താഴെ ഇത് കൂടുതൽ താഴേക്ക് പോകുന്നു ഈ സമയം മുതൽ ഔട്ട്പുട്ട് കുറയാൻ തുടങ്ങും ആശയo എന്തെന്നാൽ ഇന്റഗ്രൽ ബ്ലോ അപ് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല ബ്ലോ അപ് തുടരാനും പാടില്ല ആക്ച്യുവേഷൻ സാച്ചുറേഷൻ പോലുള്ള ഒരു പ്രതിഭാസം കാരണം പിശക് നിലനിൽക്കുകയാണെങ്കിൽ അത് പല തരത്തിൽ ചെയ്യാനാകും സാധ്യമായ നിരവധി സ്കീമുകളിൽ ഒന്ന് ഇതാ അപ്പോൾ അത് എങ്ങനെ ചെയ്യാം അതിനാൽ ഈ ലളിതമായ കണ്ട്രോളർ നോക്കുക നമുക്ക് സാധാരണ പിഡി ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് പദം തൽക്കാലം അവഗണിക്കാം അതിനാൽ നമുക്ക് ഒരു പ്രൊപോഷണൽ പദമുണ്ട് കൂടാതെ ഈ സ്ലൈഡിൽ നമ്മൾ പരിഗണിക്കാത്ത ഒരു ഡെറിവേറ്റീവ് പദവും ഉണ്ട് ആക്ച്യുവേറ്ററിന് ഒരു സാച്ചുറേഷൻ സ്വഭാവമുണ്ട് ഇതാണ് കൺട്രോളർ എങ്കിൽ ഇതാണ് പ്ലാന്റ് ഇൻപുട്ടും എങ്കിൽ ആക്യുവേറ്റർ അതിനിടയിൽ ഇരിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ ഫിസിക്കൽ പ്ലാന്റ് ഇൻപുട്ട് സെൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോളറിൽ തന്നെ ആക്ച്യുവേറ്ററിന്റെ ഒരു മോഡൽ ഉണ്ടായിരിക്കുകയും ഇൻപുട്ട് നൽകുന്നതിനുമുമ്പ് പരിശോധിക്കുകയും ചെയ്യാം ഇത് ശരിക്കും ആക്ച്യുവേറ്റർ പരിധി ലംഘിക്കുമോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഇത് സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എന്ത് ഇൻപുട്ട് ആണ് പോകുന്നതെന്ന് വീണ്ടും കാണാൻ നിങ്ങൾക്ക് ഒരു സെൻസർ ഉപയോഗിക്കാം ഇപ്പോൾ v u ക്കാൾ വലുതാകുമ്പോൾ സ്ലൈഡ് സമയം 2254 കാണുക ഈ ആക്ച്യുവേഷൻ പിശക് നെഗറ്റീവ് ആകും ഇപ്പോൾ നമ്മൾ ഈ ആക്ച്യുവേഷൻ പിശക് എടുത്ത് നിങ്ങൾ ഫീഡ് ചെയ്യുന്നു അതിനാൽ ഒരു നെഗറ്റീവ് പദം ഇവിടെ വരുന്നു പിശക് പോസിറ്റീവ് ആണ് PID ഇന്റഗ്രൽ ടേം വഴി ഒരു പോസിറ്റീവ് പദം ഉണ്ട് ഈ ഗെയിൻ അനുയോജ്യമായ രീതിയിൽ നിർവചിക്കേണ്ടതുണ്ട് അതായത് v നെഗറ്റീവ് ആകുമ്പോഴെല്ലാം ഈ സിഗ്നൽ പൂജ്യമാകും ഈ സിഗ്നൽ പൂജ്യമാകുമ്പോൾ ഈ ഇന്റഗ്രേറ്റർ കെട്ടിപ്പടുക്കുന്നില്ല അതായത് ഈ ഇന്റഗ്രേറ്റർ ഔട്ട്പുട്ട് കോൺസ്റ്റൻസ് മൂല്യത്തിൽ തുടരും നമ്മൾ ഒരു ഇൻപുട്ട് നൽകുമ്പോഴെല്ലാം ഒരു ആക്ച്യുവേറ്റർ സാച്ചുറേഷൻ ഉണ്ടാക്കും നമ്മൾ PID കൺട്രോളറിലേക്ക് ചേർത്ത ഈ പ്രത്യേക പാത ഇപ്പോൾ ഇന്റഗ്രൽ പദത്തിൻറെ ബ്ലോ അപ് തടയും അതിനാൽ സെറ്റ് പോയിന്റ് കുറയുമ്പോൾ പ്ലാന്റ് ഔട്ട്പുട്ട് വളരെ സുഗമമായി പിന്തുടരും ആൻറി റീസെറ്റ് വിൻഡപ്പ് ആയി ഉപയോഗിക്കുന്ന സ്കീമുകളിൽ ഒന്നാണിത് ചിലപ്പോൾ ഇന്റഗ്രൽ വിൻഡ് അപ്പിനെ റീസെറ്റ് വിൻഡപ്പ് എന്ന് വിളിക്കുന്നു

അടുത്തതിലേക്ക് വരുമ്പോൾ പിഐഡി കൺട്രോളറുകൾ ചരിത്രപരമായി ഹൈഡ്രോളിക് ന്യൂമാറ്റിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെന്ന് ഞാൻ പറയുകയായിരുന്നു അതിനാൽ അവയ്ക്ക് ചില റിയലൈസേഷൻ സ്ട്രക്ചർ ഉകൾ ഉണ്ട് ഇത് ഒരു സാധാരണ ഘടനയാണ് ഇവിടെ നേട്ടം മനസിലാക്കാൻ കൺട്രോളറിന്റെ ഒരു ഭാഗം ഉപയോഗിക്കുന്നു സാധാരണയായി ഫ്ലാപ്പർ നോസലുകൾ പോലുള്ള ഉപകരണങ്ങളും ഈ സമയ സ്ഥിരതകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന വിവിധതരം ബെല്ലോ ഓറിഫിസുകളോ പരിമിതികളോ ഉണ്ട് അതിനാൽ ഈ കൺട്രോളർ ഘടന നോക്കുക തൽക്കാലം നമുക്ക് ഇതിനെക്കുറിച്ച് മറന്ന് ഇത് നേരിട്ട് പോകുന്നുവെന്ന് കരുതാം അതിനാൽ നിങ്ങൾ ഈ ഘടന എടുക്കുകയാണെങ്കിൽ യു വി എന്നിവയ്ക്കിടയിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾ കണക്കാക്കുന്നു ഒന്നാമതായി ശ്രദ്ധിക്കുക KI എന്നത് KP TI എന്ന് എഴുതാം ഇവിടെ ഇൻറർ ആക്ഷൻ നടക്കുന്നതിനാൽ ഇൻറർ ആക്ഷൻ മോഡ് എന്ന് വിളിക്കുന്നു കാരണമെന്തെന്നാൽ പ്രൊപോഷണൽ ഗെയിൻ Kp മാറുമ്പോൾ ഇന്റഗ്രൽ ഗെയിൻ Ki മാറും അതിനാൽ Kp മാറ്റുമ്പോഴെല്ലാം നിങ്ങൾ ഇന്റഗ്രൽ ഗെയിൻ സ്ഥിരമായി നിലനിർത്തണമെങ്കിൽ നിങ്ങൾ Ki മാറ്റേണ്ടതുണ്ട് അതിനാൽ വിവിധ പാരാമീറ്ററുകൾ നോൺ ഇന്ററാക്ടീവ് മോഡിൽ വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല പക്ഷേ അവ ഇന്ററാക്ടീവ് ആയിരിക്കും കൂടാതെ v നും u നും ഇടയിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലിമിറ്ററിനെ അവഗണിച്ച് കണക്കാക്കുന്നു ലിമിറ്റർ എന്നതിനർത്ഥം മൂല്യം ഒരു നിശ്ചിത മൂല്യത്തിനപ്പുറത്തേക്ക് പോയാൽ അത് പരിമിതപ്പെടുത്തും എന്നാണ് തൽക്കാലം നമ്മൾ ലിമിറ്ററിനെ അവഗണിക്കുകയാണെങ്കിൽ യു വി എന്നിവയ്ക്കിടയിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്തും ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നാൽ 11STi അതിനാൽ നമ്മൾ അതിനെ Kp വഴി ഗുണിക്കുമ്പോൾ നമുക്ക് ഒരു PI കൺട്രോളറിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലഭിക്കും അതിനാൽ നമ്മൾ മനസിലാക്കിയത് ഒന്നുതന്നെയാണെന്നും നമുക്ക് കാണാൻ കഴിയും ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നത് KP11STi നമ്മൾ ഇത് ഈ രീതിയിൽ റിയൽലൈസ് ചെയ്തു ഇന്റഗ്രൽ വിൻഡ് അപ്പ് ഒഴിവാക്കാൻ ഈ ഘടനയിൽ ഉപയോഗിക്കുന്ന ലിമിറ്ററിന്റെ പങ്ക് നോക്കാം u ഉയരത്തിലേക്ക് പോയാൽ ഇത് ആക്ച്യുവേറ്ററിലേക്ക് പോകുന്ന കൺട്രോളർ ഔട്ട്പുട്ടാണെന്ന് നമുക്ക് കാണാം ഇത് വളരെ ഉയർന്നതാണെങ്കിൽ കൺട്രോളറിനുള്ളിലുള്ള ഈ പരിധി ഇത് പരിമിതപ്പെടുത്താൻ പോകുന്നു u സ്ഥിരമാകുമ്പോൾ ഇത് ലളിതമായ ആദ്യ ഓർഡർ ട്രാൻസ്ഫർ ഫംഗ്ഷനായിരിക്കും ആ സമയത്ത് ഈ ഇൻപുട്ടും സ്ഥിരമായിരിക്കും ഇപ്പോൾ സംഭവിക്കുന്നത് പിശക് സ്ഥിരമാണ് എന്നതാണ് അതിനാൽ ഈ v സ്ഥിരമാണ് കാരണം ഇത് ഒരു ഉയർന്ന തലത്തിലേക്ക് പോയി നമ്മൾ പരിധി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തെ ആശ്രയിച്ച് ചില തലങ്ങളിൽ ഇതും സ്ഥിരമാണ് u സ്ഥിരമായിത്തീരുന്നു അതിനാൽ പിഐ കൺട്രോളറിന്റെ ഔട്ട്പുട്ട് തീർച്ചയായും വർദ്ധിക്കുന്നില്ല പക്ഷേ പരിമിതപ്പെടുന്നു അതിനാൽ ഹൈഡ്രോളിക് ന്യൂമാറ്റിക് നിയന്ത്രണങ്ങളിൽ ആന്റി റീസെറ്റ് വിൻഡപ്പ് സ്കീം സാധാരണ നടപ്പാക്കാനുള്ള മറ്റൊരു മാർഗമാണിത്